ഈ വീഡിയോ ക്യാപ്സ്യൂളിൽ നമുക്ക് റക്റ്റിഫയറുകളും കപ്പാസിറ്റർ ഫിൽട്ടറും പരിശോധിക്കാം നമുക്ക് ഫുൾബ്രിഡ്ജ് റക്റ്റിഫയറിലും ഫിൽട്ടറിംഗ് സർക്യൂട്ടിനുള്ള കപ്പാസിറ്റർ ഫിൽട്ടറിലും മാത്രം ഊന്നൽ കൊടുക്കാം എസിയെ ഡിസിയിലേക്ക് പരിവർത്തനം ചെയ്യുന്ന നിരവധി സർക്യൂട്ടുകൾ ഉണ്ടെന്ന് നമുക്കറിയാം എന്നിരുന്നാലും ഫുൾ ബ്രിഡ്ജ് റക്റ്റിഫയർ കപ്പാസിറ്റർ ഫിൽട്ടർ കോമ്പിനേഷനാണ് ഏറ്റവും ജനപ്രിയമായ എസി ടു ഡിസി കൺവെർട്ടർ ഒട്ടുമിക്ക എല്ലാ ഉൽപ്പന്നങ്ങളിലും നിങ്ങൾക്ക് അത് കാണാൻ കഴിയും ഫുൾ ബ്രിഡ്ജ് റക്റ്റിഫയർ കോമ്പിനേഷന് ധാരാളം പോരായ്മകൾ ഉണ്ട് വളരെ കുറഞ്ഞ പവർ ഫാക്ടർ ഉയർന്ന വൈദ്യുത ഉപഭോഗം അതുപോലുള്ള പല കാര്യങ്ങളും എന്നിരുന്നാലും ഇതിന് ഗുണങ്ങളുമുണ്ട് വളരെ കുറഞ്ഞ ഘടകങ്ങളുടെ എണ്ണം കുറഞ്ഞ വില വളരെ ഉയർന്ന വോള്യൂമെട്രിക് കാര്യക്ഷമത തുടങ്ങിയവ ഇത് വളരെ ഒതുക്കമുള്ളതാണ് ഇക്കാരണത്താൽ ഇത് വളരെ ജനപ്രിയമായി നമുക്ക് ഈ പ്രത്യേക സർക്യൂട്ട് പഠിക്കാം നിങ്ങൾ സർക്യൂട്ടുകൾ കൈകാര്യം ചെയ്യുമ്പോൾ നേരിടേണ്ടിവരുന്ന പ്രശ്നങ്ങളും ആവശ്യമായ തിരുത്തലുകളും പരിരക്ഷകളും ഞാൻ നിങ്ങൾക്കു വിവരിച്ചു തരാം പിന്നീട് നമ്മൾ ഡിസി ഡിസി കൺവെർട്ടറിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പവർ ഫാക്ടർ മെച്ചപ്പെടുത്തൽ സാങ്കേതികതകളെക്കുറിച്ചും രീതികളെക്കുറിച്ചും വിവരിക്കാം ഇപ്പോൾ നമ്മൾ റക്റ്റിഫയർ സർക്യൂട്ടിനെക്കുറിച്ച് സംസാരിക്കാം അതിന്റെ പ്രവർത്തനത്തെക്കുറിച്ചും തരംഗ രൂപങ്ങളെക്കുറിച്ചും ആദ്യം നമുക്ക് ഇതിൻറെ സോഴ്സിൽ നിന്ന് ആരംഭിക്കാം സോഴ്സ് സാധാരണയായി 230 വോൾട്ട് 50 ഹെർട്സ് ഗ്രിഡ് വോൾട്ടേജ് തരംഗ ആകൃതിയിലുള്ള സിനുസോയ്ഡൽ ആണ് ഇത് യൂണിഡയറക്ഷനൽ വോൾട്ടേജ് തരംഗരൂപം പ്രതീക്ഷിക്കുന്ന ലോഡ് ഉപയോഗിച്ച് ബന്ധിപ്പിക്കേണ്ടതുണ്ട് ഇവിടത്തെ പ്രധാന കാര്യം സോഴ്സിന്റെ ധ്രുവം ഏതാണെങ്കിലും ലോഡിലൂടെ വൈദ്യുതി എല്ലായ്പ്പോഴും ഒരേ ദിശയിൽ തന്നെ ഒഴുകണം എന്നതാണ് ഇനി നമുക്ക് ഡയോഡുകൾ ഘട്ടം ഘട്ടമായി ബന്ധിപ്പിക്കാം ഒന്നാമതായി സോഴ്സിന് ഒരു പോസിറ്റീവ് ധ്രുവത ഉള്ളപ്പോൾ മറ്റ് ടെർമിനലുമായി അപേക്ഷിച്ച് ഇത് പോസിറ്റീവ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നതുപോലെ വൈദ്യുത പ്രവാഹം പൂർത്തിയാകുന്നതിന് ഈ ദിശയിൽ ഡയോഡുകൾ ബന്ധിപ്പിക്കേണ്ടതുണ്ട് ഈ ദിശയിലുള്ള ലോഡിലൂടെ നിലവിലെ വൈദ്യുത പ്രവാഹ ദിശ ശ്രദ്ധിക്കുക ഇപ്പോൾ സോഴ്സിന്റെ ധ്രുവീകരണം വിപരീതമാണെന്ന് നമുക്ക് പറയാം ഇപ്പോൾ അത് നീല അടയാള തലത്തിലാണ് ഈ 2 ഡയോഡുകൾ വിപരീത പക്ഷപാതമായി മാറുകയും ഓഫാകുകയും ചെയ്യും ഇത് കുറച്ച് കഴിഞ്ഞ് വിശദീകരിക്കാം ആദ്യം നമുക്ക് നിലവിലെ വൈദ്യുത പ്രവാഹ ദിശ നോക്കാം ഇതിനെ അപേക്ഷിച്ച് ഇത് പോസിറ്റീവ് ആണ് അതിനാൽ ഇവിടെ നെഗറ്റീവ് പകുതിയിൽ ഇത് പോസിറ്റീവ് ആണെന്നും വൈദ്യുത പ്രവാഹം ഈ ദിശയിലായിരിക്കുമെന്നും ലോഡ് റെസിസ്റ്ററിലൂടെ അതേ പോയിന്റ് ടെർമിനലിൽ വീണ്ടും പ്രവേശിക്കുകയും തുടർന്ന് സോഴ്സിലേക്ക് മടങ്ങുകയും ചെയ്യുന്നതായി നിങ്ങൾക്കു കാണാം ഇവിടെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നിലവിലെ വൈദ്യുത ദിശ നിലനിർത്തിയിരിക്കുന്നു എന്നതാണ് അതുവഴി സോഴ്സ് വോൾട്ടേജ് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ലോഡിന് കുറുകെയുള്ള വോൾട്ടേജ് ഏകദിശയിലുള്ളതാണെന്ന് നിങ്ങൾക്കു കാണാം ഇപ്പോൾ ഈ ഡയോഡ് എങ്ങനെ ഇവിടെ വിപരീത പക്ഷപാതമാകുമെന്ന് പറയാം അതിനാൽ നീല കളർ ഡയോഡുകൾ ചാലകം ചെയ്യുമ്പോൾ ഈ ടെർമിനലുമായി അപേക്ഷിച്ച് ഇത് പോസിറ്റീവ് ആണെന്ന് നിങ്ങൾക്ക് കാണാം അതിനാൽ ഈ നീല ഡയോഡ് ഈ ടെർമിനൽ ചാലകം ചെയ്യുമ്പോൾ ഈ ബിന്ദു ഇതുമായി അപേക്ഷിച്ച് ഒരു പോസിറ്റീവ് പൊട്ടൻഷ്യലിൽ ആയിരിക്കും അതിനാൽ ഈ ഡയോഡ് കാണുന്നത് ഒരു വിപരീത പക്ഷപാത വോൾട്ടേജ് ആണ് റിവേഴ്സ് വോൾട്ടേജ് അതിനാൽ ഇത് വിപരീത പക്ഷപാതപരവും ഓഫുമാണ് അതുപോലെ ഈ പോയിന്റുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ പോയിന്റ് പോസിറ്റീവ് പൊട്ടൻഷ്യലിലാണ് ഈ ഡയോഡ് വീണ്ടും റിവേഴ്സ് വോൾട്ടേജ് കാണുകയും അത് വിപരീത പക്ഷപാതവും ഓഫ് സാഹചര്യത്തിലുമാണ് സമാനമായ വാദത്തിലൂടെ മറ്റ് 2 ഡയോഡുകൾ അതായത് ഈ ഡയോഡ് വോൾട്ടേജ് പോളാരിറ്റി പോസിറ്റീവ് ആയിരിക്കുകയും ഇതുമായി അപേക്ഷിച്ച് ഇത് പോസിറ്റീവ് ആവുകയും ചെയ്യുമ്പോൾ ഈ ഡയോഡ് ഓഫാകും അതിനാൽ ഈ മറ്റ് 2 ഡയോഡുകൾ ചാലകം ചെയ്യുകയും ഈ 2 ഡയോഡുകൾ ഓഫാകുകയും ചെയ്യും റക്റ്റിഫയറിന്റെ ചിത്രരൂപം ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെയാണ് ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു ഫിൽട്ടർ ബന്ധിപ്പിക്കേണ്ടതുണ്ട് കാരണം ഇത് ഒരു വ്യത്യസ്ത വോൾട്ടേജാണ് നമുക്ക് ഒരു ഫിൽട്ടർ ബന്ധിപ്പിക്കേണ്ടതുണ്ട് കാണിച്ചിരിക്കുന്നതുപോലെ ഒരു കപ്പാസിറ്റർ ബന്ധിപ്പിക്കുന്നത് വളരെ ലളിതമായ കാര്യമാണ് ഇതൊരു കപ്പാസിറ്റർ സി ആണ് ഇപ്പോൾ ഈ കപ്പാസിറ്റർ ഒരു ഫിൽട്ടറായി പ്രവർത്തിക്കുകയും ഒരു ഡിസി പോലെ കൂടുതലോ കുറവോ ആയ ലോഡിലൂടെ കറന്റ് കടത്തിവിടാൻ ശ്രമിക്കുകയും ചെയ്യും റക്റ്റിഫയറിന്റെയും കപ്പാസിറ്ററുകളുടെയും ചില യഥാർത്ഥ ഘടകങ്ങൾ കാണാൻ ഇപ്പോൾ ഈ പോയിന്റ് രസകരമായിരിക്കാം ചില സാധാരണ റക്റ്റിഫയർ ഡയോഡുകൾ നിങ്ങളെ കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ ഇത് 1N4001 1N4007 സീരീസ് തരത്തിലുള്ള ഡയോഡുകളിൽ ഉപയോഗിക്കുന്ന വളരെ സാധാരണമായ ഒരു റക്റ്റിഫയർ ഡയോഡാണ് ഇതിന് ഏകദേശം 1 ആമ്പോ അതിൽ കൂടുതലോ കൈകാര്യം ചെയ്യാൻ കഴിയും കൂടാതെ വളരെ ജനപ്രിയവും സാധാരണവുമാണ് അവ ഇതുപോലെയുള്ള സ്ട്രിപ്പുകൾ ആയിരിക്കും ഇതുപോലെ ഒരു ഫുൾ ബ്രിഡ്ജ് റക്റ്റിഫയർ രൂപപ്പെടുത്തുന്നതിന് നിങ്ങൾക്ക് അവയിൽ 4 എണ്ണം മൌണ്ട് ചെയ്യാം നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ ചെറിയ ഡയോഡുകൾ 1N4148 തരം ഡയോഡുകളാണ് വളരെ ചെറുതാണ് വളരെ ചെറിയ സർക്യൂട്ടുകൾക്കായി ആ ശ്രേണിയിൽ ഏകദേശം 500 മില്ലിയാമ്പുകളോ 800 മില്ലിയാമ്പുകളോ മാത്രമേ കൈകാര്യം ചെയ്യുന്നുള്ളൂ നിങ്ങൾക്ക് ചില FR സീരീസ് ഉയർന്ന ആമ്പുകൾ 1 കാണാം ഇതാണ് 1N11 ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് ഏകദേശം 3amps റേഞ്ച് FR സീരീസ് ഡയോഡാണ് റക്റ്റിഫയർ ഡയോഡുകൾ റക്റ്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കാം ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് 6 amp ഡയോഡാണ് അതിനാൽ ഇവ റക്റ്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കാം ഇവിടെ രസകരമായ ഒരു കാര്യം ഇത് ഫുൾ ബ്രിഡ്ജ് റക്റ്റിഫയർ പൂർത്തിയായതായി നിങ്ങളെ കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനുള്ളിൽ നാല് ഡയോഡുകൾ ഉണ്ട് അതിനാൽ 2 ലീഡുകൾ എസിയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു കൂടാതെ 2 ലീഡുകൾ പ്ലസ് മൈനസ് ആയ ഏകദിശ പോർട്ടിലേക്കും ആ ഏകദിശ പോർട്ടിലേക്കും ബന്ധിപ്പിച്ചിരിക്കുന്നു അതായത് നിങ്ങൾ ഒരു ലോഡ് റെസിസ്റ്ററും ഒരു ഫിൽട്ടർ കപ്പാസിറ്ററും ബന്ധിപ്പിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് ലഭ്യമായ ഒരു ഫുൾ ബ്രിഡ്ജ് റക്റ്റിഫയർ ഘടകത്തിൽ 4 ഡയോഡുകൾ അടങ്ങിയിരിക്കുന്നു നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്ന രസകരമായ മറ്റൊരു കാര്യം ഇതിന് 5 പിന്നുകൾ ഉണ്ട് എന്നതാണ് ഇത് യഥാർത്ഥത്തിൽ 3 ഫേസ് റക്റ്റിഫയറാണ് നിങ്ങൾ A ഘട്ടം B ഘട്ടം C ഘട്ടം എന്നിവ ഈ 3 ടെർമിനലുകളിലേക്ക് കണക്റ്റുചെയ്യുന്നു തുടർന്ന് ഈ ഘട്ടത്തിൽ നിങ്ങൾക്ക് ഇവയിൽ നിന്നുള്ള പ്ലസ് മൈനസ് ഔട്ട്പുട്ടുകൾ എടുത്ത് കപ്പാസിറ്ററും ലോഡും ബന്ധിപ്പിക്കാം ഇതൊരു 3 ഫേസ് റക്റ്റിഫയറാണ് പിന്നിൽ ഒരു അലുമിനിയം ഫേസിംഗ് ഉണ്ടെന്ന് നിങ്ങൾ കാണും ഇത് താപ നിയന്ത്രണത്തിനായി ഹീറ്റ് സിങ്കിലേക്ക് ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കാം അതിനാൽ ഹീറ്റ് സിങ്ക് ഇത്തരത്തിലുള്ളതോ മറ്റേതെങ്കിലും തരത്തിലുള്ളതോ ആകാം അത് ഡിസൈനിനെ ആശ്രയിച്ചിരിക്കുന്നു മികച്ച താപ പ്രവാഹം ലഭിക്കുന്നതിന് ഒരാൾ അത് ഈ രീതിയിൽ സ്ഥാപിക്കും അതിനാൽ ഈ റക്റ്റിഫയറുകൾ പോലെ നിങ്ങളെ കാണിക്കാൻ കുറച്ച് കപ്പാസിറ്ററുകൾ ഉണ്ട് അതിനാൽ ഇവ ഉപയോഗിക്കാവുന്ന അലുമിനിയം ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററുകളാണ് ചെറിയവയിൽ ഇത്തരത്തിലുള്ള അലുമിനിയം ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം ലൈൻ അടയാളമുള്ളത് സാധാരണയായി നെഗറ്റീവ് പോളാരിറ്റിയാണ് കൂടാതെ അൽപ്പം വലുതും 4700 മൈക്രോ ഫാരഡുകളും ഇത് ഒരു അലുമിനിയം ഇലക്ട്രോലൈറ്റിക് കൂടിയാണ് മിക്കപ്പോഴും ഇത് അലുമിനിയം ഇലക്ട്രോലൈറ്റിക് ആണ് ഉപയോഗിക്കുന്നത് സാധാരണയായി ഇൻവെർട്ടുകളിലെ ഉയർന്ന പവർ സർക്യൂട്ടുകളിൽ ഉപയോഗിക്കുന്ന ഒരു വലിയ ഡിസി ലിങ്ക് കപ്പാസിറ്റർ എനിക്കിപ്പോഴും ഉണ്ട് ടെർമിനൽ ലഗുകൾ ഉള്ളിടത്ത് നിങ്ങൾ ലഗുകൾ ബന്ധിപ്പിക്കുന്നു ഇത് എയറോവോക്സിൽ നിന്നുള്ളതാണ് ഇത് 450 വോൾട്ട് ഡിസി ഉയർന്ന വോൾട്ടേജ് ആയിരം മൈക്രോ ഫാരഡ് കപ്പാസിറ്റർ ഇത് ഒരു അലുമിനിയം ഇലക്ട്രോലൈറ്റിക് കൂടിയാണ് റക്റ്റിഫയർ സർക്യൂട്ടുകളിൽ ഉപയോഗിക്കുന്ന 2 സെറ്റ് ഘടകങ്ങളാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ കാണുന്നത് സർക്യൂട്ടിംഗിലേക്ക് തിരിച്ചുവരാം അതിനാൽ നമ്മൾ ഫുൾബ്രിഡ്ജ് റക്റ്റിഫയറും കപ്പാസിറ്ററും ഇവിടെ ലോഡിലുടനീളം ഒരു ഫിൽട്ടറായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഇനി നമുക്ക് ഭാഗങ്ങൾ പേരിടാം ഇൻപുട്ട് ഉറവിടത്തെ നമ്മൾ Vin എന്ന് വിളിക്കും ഇൻപുട്ട് ഡയോഡ് D2 ന്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഡയോഡ് D1 ഡയോഡ് D4 എന്നിവ കണക്ട് ചെയ്യുന്നു Vin നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഡയോഡ് D3 ചാലകം ചെയ്യുന്നു ഇപ്പോൾ ഒരു കപ്പാസിറ്റർ C യും ഒരു ലോഡ് Ro യും ഉണ്ട് നമ്മൾ ഒരു റെസിസ്റ്റീവ് ലോഡ് ചെയ്തു അതിനെ Vc എന്ന് വിളിക്കുന്നു കപ്പാസിറ്ററിലുടനീളം Vc അല്ലെങ്കിൽ വോൾട്ടേജ് നിങ്ങൾക്ക് പ്രാധാന്യമുള്ളതാണ് കാരണം അത് ലോഡും കാണുന്ന വോൾട്ടേജാണ് ഇത് യഥാർത്ഥത്തിൽ ഫിൽട്ടർ ചെയ്ത വോൾട്ടേജായിരിക്കും ഈ നോഡിൽ ഒഴുകുന്ന 3 വൈദ്യുതധാരകളാണ് മറ്റൊരു രസകരമായ കാര്യം റക്റ്റിഫയറിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വൈദ്യുതി ആണിത് ഇത് കപ്പാസിറ്ററിലേക്ക് ഒഴുകുന്ന വൈദ്യുതധാരയാണ് ഇതാണ് ലോഡിലേക്ക് ഒഴുകുന്നത് ഈ സമയത്ത് വൈദ്യുതി ഒരു ഡിസി ആയിരിക്കുമെന്നും ഇവിടത്തെ വൈദ്യുതി സ്പൈക്കി പീക്കി കറന്റ് ആയിരിക്കുമെന്നും നമ്മൾക്ക് പ്രതീക്ഷിക്കാം അതുപോലെ ഇവിടെ നമ്മൾക്ക് പ്രതീക്ഷിക്കാവുന്ന മറ്റൊരു കാര്യം കപ്പാസിറ്ററിലൂടെയുള്ള വൈദ്യുതിയുടെ ലോഡ് കറന്റ് മൂല്യത്തിലുള്ള കുറവാണ് ഇനിയുള്ള സ്ലൈഡുകളിൽ ഈ കറന്റ് തരംഗ രൂപത്തെക്കുറിച്ച് നമ്മൾക്ക് കൂടുതൽ വിശദമായി ചർച്ച ചെയ്യാം ഇവിടെ ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു ആശയം ഇത് ശരാശരി മൂല്യവും എസി ഘടകവും ഉള്ള ഒരു വൈദ്യുതിയാണ് ശരാശരി മൂല്യമുള്ള ഭാഗം ലോഡ് റെസിസ്റ്ററിലേക്കും എസി ഘടകഭാഗം എസി ശരാശരി മൂല്യമില്ലാത്തവയിലേക്കും പോകുന്നു ശരാശരി മൂല്യം പൂജ്യം കപ്പാസിറ്ററിലൂടെ ഒഴുകുന്നു സ്ഥിരമായ അവസ്ഥയിൽ കപ്പാസിറ്ററിന് ശുദ്ധമായ എസി വൈദ്യുതി മാത്രമേ കൈകാര്യം ചെയ്യാൻ കഴിയൂ എന്ന് നാം അറിഞ്ഞിരിക്കണം ഒരു ശരാശരി മൂല്യം ഉണ്ടാകരുത് അല്ലെങ്കിൽ ചാർജ് ബിൽഡ് അപ്പ് ഉണ്ടാകും അതിനാൽ സ്ഥിരമായ അവസ്ഥയിൽ വൈദ്യുതധാരയുടെ പൂജ്യം ശരാശരി ഭാഗം അല്ലെങ്കിൽ ഒരേയൊരു എസി ഘടകം കപ്പാസിറ്ററിലൂടെ ഒഴുകുന്നു ഇതാണ് ഫിൽട്ടറിന്റെ പ്രവർത്തനം ഇനി നമുക്ക് തരംഗരൂപം വിശദമായി നോക്കാം അതിനുമുമ്പ് നമുക്ക് ഭാഗങ്ങൾക്ക് പേര് നൽകാം അതിനാൽ റക്റ്റിഫയറിൽ നിന്ന് പുറത്തുവരുന്ന വൈദ്യുതധാരയെ I എന്നും കപ്പാസിറ്ററിലൂടെ കടന്നുപോകുന്ന വൈദ്യുതധാരയെ Ic എന്നും ലോഡ് Ro ലേക്ക് ഒഴുകുന്ന വൈദ്യുതധാരയെ Io എന്നും വിളിക്കാം നമുക്ക് ഈ ടെംപ്ലേറ്റ് നോക്കാം ഇത് റെക്റ്റിഫൈ ചെയ്ത ഓരോ പകുതിയുടെയും സൈൻ വേവ് രൂപമാണ് അതിനാൽ ഇത് ഇൻപുട്ട് ഉറവിടത്തിന്റെ പോസിറ്റീവ് പകുതിയാണ് ഇത് ഇൻപുട്ട് ഉറവിടത്തിന്റെ നെഗറ്റീവ് പകുതിയാണ് ഇത് റെക്റ്റിഫൈ ചെയ്ത് യൂണി ഡയറക്ഷനൽ ഫാഷനിൽ സ്ഥാപിച്ചിരിക്കുന്നു നമുക്ക് ഈ പോയിന്റിൽ നിന്ന് ആരംഭിക്കാം ഈ പീക്ക് പോയിന്റ് ഒരു അവലംബമായി കണക്കാക്കാം നമുക്ക് അതിലേക്ക് തിരിച്ചുവരാം ഇത് സ്ഥിരമായ അവസ്ഥയിലാണെന്ന് പറയാം അതായത് കപ്പാസിറ്റൻസിൽ കുറച്ച് ചാർജ് ശേഖരിക്കപ്പെടുന്നു അതിനാൽ നമ്മൾ ഈ ഘട്ടത്തിൽ ആരംഭിക്കുന്നുവെന്ന് ഞാൻ പറഞ്ഞാൽ കപ്പാസിറ്റൻസിന്റെ വോൾട്ടേജ് മൂല്യവും Vm ആയിരിക്കും അതിനാൽ ഈ സമയത്ത് കപ്പാസിറ്റർ ഒരു സമയ സ്ഥിരതയോടെ ലോഡ് വഴി ഡിസ്ചാർജ് ചെയ്യുന്നു അതിനാൽ കപ്പാസിറ്റൻസിന്റെ ഡിസ്ചാർജ് ഭാഗം ഉണ്ട് അതേസമയം ഇൻപുട്ട് വേവ് ആകൃതി ഈ പാത പിന്തുടരുന്നു അതിനാൽ നിങ്ങൾ ഫുൾ ബ്രിഡ്ജിലെ ഡയോഡുകൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നോഡ് വോൾട്ടേജ് കൂടുതലും ഇൻപുട്ട് വശത്തുള്ള വോൾട്ടേജ് കുറവുമാണ് കൂടാതെ എല്ലാ ഡയോഡുകളും വിപരീത പക്ഷപാതവും ഓഫും ആണ് അതിനാൽ ഈ ഭാഗത്തിലും ഈ ഭാഗം വരെയും ഒരു ഡയോഡും ചാലകം ചെയ്യുന്നതായി നിങ്ങൾ കാണുന്നില്ല കാരണം അവ വിപരീത പക്ഷപാതിത്വമുള്ളതിനാൽ കപ്പാസിറ്റർ ഭാഗം ഇൻപുട്ട് ഭാഗത്ത് നിന്ന് വേർതിരിച്ചിരിക്കുന്നു അതിനാൽ ഇൻപുട്ട് തരംഗത്തിന്റെ ആകൃതി മാറി മുകളിലേക്ക് ഉയരുമ്പോൾ ഈ ഘട്ടത്തിൽ എത്തുന്നതുവരെ കപ്പാസിറ്റർ അതിൽ തന്നെ ഡിസ്ചാർജ് ചെയ്യുന്നു ഇതിനപ്പുറം ഇൻപുട്ട് ഉയരുമ്പോൾ ഡയോഡുകൾ ചാലകം ചെയ്യുന്നു അതിനാൽ ഈ സാഹചര്യത്തിൽ ബ്ലൂ കളർ ഡയോഡുകൾ ചാലകം ചെയ്യുകയും കപ്പാസിറ്റർ ഇൻപുട്ടിനെ പിന്തുടരുകയും ചെയ്യുന്നു ഡയോഡുകൾ കപ്പാസിറ്റർ നോഡ് പോയിന്റ് നേരിട്ട് ഉറവിടവുമായി ബന്ധിപ്പിക്കുമ്പോൾ അത് ഉറവിടത്തെ പിന്തുടരും ചുവപ്പ് ആവർത്തിക്കുന്നു കപ്പാസിറ്റർ ഈ രീതിയിൽ ഡിസ്ചാർജ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം കൂടാതെ കപ്പാസിറ്റർ ഇതുപോലെ ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങുകയും ഇൻപുട്ടും സിനുസോയിടൽ പാതയിലൂടെ താഴേക്ക് ഒഴുകാൻ തുടങ്ങുകയും ചെയ്യുന്നു പൊട്ടൻഷ്യനിൽ വ്യത്യാസമുണ്ടെന്ന് നിങ്ങൾക്ക് കാണാം ഡയോഡുകൾ വിപരീത പക്ഷപാതം കാണിക്കുന്നു ഓഫ് ആവുകയും ചെയ്യുന്നു അതുപോലെ തന്നെ നോഡ് Vc യിലെ ഔട്ട്പുട്ടിനുള്ള സ്റ്റേഡി സ്റ്റേറ്റ് തരംഗ രൂപവും തരംഗ ആകൃതിയും ഇതായിരിക്കും അതിനാൽ ലോഡിലുടനീളം ഔട്ട്പുട്ട് കാണുന്ന അലകൾ ആണിത് ഡിസൈനിലൂടെ ഈ അലകൾ നിയന്ത്രിക്കാനാകും അത് നമുക്ക് പിന്നീട് കാണാം ഇപ്പോൾ നിങ്ങൾ ഈ ഭാഗം നോക്കുകയാണെങ്കിൽ ഈ ഭാഗത്ത് മാത്രമേ ഡയോഡിലെ ചാലകത കാണുകയുള്ളൂ നമ്മൾ കാണുന്നത് ഡയോഡിന്റെ ചാലകതയാണ് അതിനാൽ നമുക്ക് എല്ലാം അടയാളപ്പെടുത്താം ആ സമയത്ത് മാത്രമേ ഇവിടെ കറന്റ് I ഒഴുകുന്നത് കാണൂ അപ്പോൾ വൈദ്യുതി ഏത് തരമായിരിക്കും അതിനാൽ ഈ ഘട്ടത്തിൽ ഡയോഡുകൾ ഓണാക്കുമ്പോൾ വോൾട്ടേജ് ഉറവിടം ഒരു കപ്പാസിറ്റൻസുമായി ബന്ധിപ്പിച്ചതായി കാണുന്നു അതിനാൽ അത് രണ്ട് പൊട്ടൻഷ്യൽ ഉപകരണങ്ങളുടെ നേരിട്ടുള്ള കണക്ഷനാണ് അതിനാൽ ഇവിടെ വലിയൊരു വൈദ്യുതി ഉയർച്ച ഉണ്ടാകും അത് ട്രാക്ക് ഇൻഡക്ടൻസ് ഇ ഡയോഡ് ഇംപെഡൻസ് കപ്പാസിറ്റൻസിന്റെ ഏതെങ്കിലും ESR എന്നിവയാൽ മാത്രം പരിമിതപ്പെടുത്തിയിരിക്കുന്നു അതിനാൽ നിലവിലെ തരംഗ രൂപം ഇതുപോലെയായിരിക്കും അതിന് വളരെ കുത്തനെയുള്ള ഉയർച്ച ഉണ്ടായിരിക്കും കൂടാതെ പാതയിൽ വരുന്ന സീരീസ് ഇംപെഡൻസിനെ മാത്രം അടിസ്ഥാനമാക്കി അതിന് ഒരു സമയ സ്ഥിരത ഉണ്ടായിരിക്കും ഇപ്പോൾ കപ്പാസിറ്റൻസ് ചാർജ്ജ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആദ്യപകുതി സൈക്കിളിൽ എന്ത് സംഭവിക്കും നമുക്ക് കുറച്ച് കഴിഞ്ഞ് നോക്കാം വൈദ്യുതധാരയുടെ മറ്റ് ഘടകങ്ങൾ നമുക്ക് ആദ്യം വ്യക്തമാക്കാം ഇപ്പോൾ ഇത് ഒരു അലകൾ ഉള്ള വോൾട്ടേജിന്റെ തരംഗ രൂപമാണെന്നും ഫിൽട്ടറിന് തൊട്ടുമുമ്പ് റക്റ്റിഫയറിന്റെ ഔട്ട്പുട്ട് ഒഴുകുന്ന വൈദ്യുതി ആണെന്നും നമ്മൾക്ക് കാണാം ഇപ്പോൾ ഈ സമയത്ത് D1 ഉം D4 ഉം ചാലകം നടത്തുന്നു മറ്റ് 2 ഡയോഡുകൾ പീക്ക് D2 D3 എന്നിവയിലും നടത്തുന്നു അതിനാൽ അടിസ്ഥാനപരമായി ഇത് ഡയോഡ് വൈദ്യുതധാരകൾ ഉണ്ടാക്കും നിങ്ങൾ ഇൻപുട്ട് വൈദ്യുതിയുടെ തരംഗ രൂപം വരയ്ക്കുകയാണെങ്കിൽ ഇത് പോസിറ്റീവ് ഹാഫ് സൈക്കിളിലും നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും തരംഗത്തിന്റെ ആകൃതിയാണ് ഇത് ഇതുപോലെ വിപരീതമായിരിക്കും ഇപ്പോൾ ഇത് ഇൻപുട്ട് വൈദ്യുതിക്കുള്ള തരംഗ രൂപമാണ് ഇനി നമുക്ക് ലോഡ് കറന്റും കപ്പാസിറ്റർ കറന്റും നോക്കാം ഇപ്പോൾ ലോഡ് കറന്റ് Vc നോഡിലെ വോൾട്ടേജിനെ പിന്തുടരും അതിനാൽ ആ Vc മൂല്യത്തെ R കൊണ്ട് ഹരിച്ചാൽ Io ആയിരിക്കും ഇവിടെ കാണുന്നത് പോലെ അതിന് ചില അലകൾ ഉണ്ടാകും കാണിച്ചിരിക്കുന്നതുപോലെ ശരാശരി ഇതുവഴിയാണെന്ന് നമുക്ക് ഏകദേശം കണക്കാക്കാം പ്രായോഗിക ആവശ്യങ്ങൾക്കായി റിപ്പിൾ ഫ്രീ ഔട്ട്പുട്ടിലൂടെ ഒഴുകുന്ന വൈദ്യുതി ആയി നമുക്ക് ഈ Io എടുക്കാം എന്നാൽ ഒരു ചെറിയ അല ഉണ്ടാകുമെന്ന കാര്യം ശ്രദ്ധിക്കുക ഇപ്പോൾ നിങ്ങൾ ഈ ശരാശരി ഘടകം ഈ I വൈദ്യുതിയിൽ നിന്ന് നീക്കം ചെയ്താൽ കപ്പാസിറ്റൻസിലൂടെ ഒഴുകുന്ന വൈദ്യുതി നിങ്ങൾക്ക് ലഭിക്കും അതിനാൽ ഈ ചാലക കാലയളവിലെ കപ്പാസിറ്റൻസ് തരംഗ രൂപം നമുക്ക് വരയ്ക്കാം ഇവിടെ കാണിച്ചിരിക്കുന്നതുപോലെ കപ്പാസിറ്റൻസ് വൈദ്യുതി Io മൂല്യത്തിന്റെ അളവ് കുറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ കാണാം സ്ഥിരമായ അവസ്ഥയിൽ ഈ ഭാഗം ഈ ഭാഗത്തിന് തുല്യമാണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം ആരംഭിക്കുന്ന സമയത്തെ വൈദ്യുതിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഞാൻ ഇപ്പോൾ തരംഗ രൂപങ്ങൾ വീണ്ടും സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഇപ്പോൾ തരംഗ രൂപത്തിൻറെ ഈ ഭാഗം ഞാൻ നീക്കം ചെയ്യട്ടെ ആരംഭിക്കുന്ന സമയത്ത് നിങ്ങൾ കാണുകയാണെങ്കിൽ കപ്പാസിറ്റർ വോൾട്ടേജ് 0 ആയിരിക്കും അതിനാൽ ഒരുപക്ഷേ ഇത് ഈ നിലയിലായിരിക്കും ഇപ്പോൾ നമ്മൾ ഒരു വോൾട്ടേജ് പ്രയോഗിക്കുകയും ആ വോൾട്ടേജ് ഈ ഘട്ടത്തിൽ ആരംഭിക്കുകയും ചെയ്യുന്നുവെങ്കിൽ കപ്പാസിറ്റർ ചാർജ് വർദ്ധിപ്പിക്കുന്നതിനാൽ റക്റ്റിഫയറിലേക്ക് വൈദ്യുതി ഒഴുകുന്നു അതിനാൽ റക്റ്റിഫയർ കറന്റ് ഈ അർദ്ധചക്രം മുഴുവനും ആയിരിക്കും അതിനാൽ ചാലക കാലയളവ് വർദ്ധിക്കാൻ തുടങ്ങുന്നതും പൂർണ്ണമായ അർദ്ധചക്രം വേണ്ടിവരുന്നതും നിങ്ങൾക്ക് കാണാം അതുപോലെ നിലവിലെ തരംഗ രൂപവും ഇതുപോലെ പരിഷ്ക്കരിക്കപ്പെടും എന്നാൽ കപ്പാസിറ്റൻസിന് പൂജ്യം വോൾട്ടേജുകളുണ്ടെന്നും അതിനാൽ സ്ഥിരമായ അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായി പൂജ്യം ചാർജാണെന്നും നിങ്ങൾ മനസ്സിലാക്കുന്നുവെങ്കിൽ ഈ സമയത്ത് കപ്പാസിറ്ററിന്റെ ചാർജ് പരിമിതമായിരുന്നു കുറച്ച് ഊർജ്ജം ഉണ്ടായിരുന്നു അത് വ്യത്യസ്ഥ ഊർജ്ജം മാത്രമാണ് ഉണ്ടാക്കുന്നത് ഇനി ഈ ഊർജ്ജം മുഴുവനും ഉണ്ടാക്കണം അതിനാൽ നിങ്ങൾ ഒരുപക്ഷേ ആദ്യ സ്റ്റാർട്ടപ്പ് മൂല്യത്തിൽ നിലവിലെ തരംഗ രൂപത്തിൽ എത്തിച്ചേരും അത് ഇനിപ്പറയുന്നവയെക്കാളും സ്ഥിരതയുള്ള വൈദ്യുതധാരകളേക്കാളും ഉയർന്നതായിരിക്കും അതിനാൽ വൈദ്യുതധാരകൾക്കായുള്ള സ്റ്റാർട്ടപ്പിൽ നിന്ന് നിങ്ങൾ കാണുന്ന തരംഗ രൂപത്തിന്റെ ആകൃതിയായിരിക്കാം ഇത് എന്നാൽ ഒരു പ്രശ്നം സംഭവിക്കാം ഓൺ സമയത്ത് ഇൻപുട്ട് വോൾട്ടേജിന്റെ 0 മായി സമന്വയിപ്പിച്ചില്ലെങ്കിൽ അത് ഇവിടെ എവിടെയോ സംഭവിക്കുന്നു അതായത് ഈ ഘട്ടത്തിൽ എവിടെയെങ്കിലും ഓൺ സംഭവിക്കുന്നു അതായത് കപ്പാസിറ്റർ വോൾട്ടേജ് 0 ആണ് ഗ്രിഡ് വോൾട്ടേജ് വളരെ ഉയർന്ന മൂല്യമാണ് നിങ്ങൾ രണ്ട് സാധ്യതയുള്ള ഉപകരണങ്ങളെ ഒരുമിച്ച് ബന്ധിപ്പിക്കുന്നത് ഒരു വലിയ സർജ് കറന്റ് ഉണ്ടാകാം അതിനാൽ നിലവിലെ തരംഗ രൂപത്തിന് എന്ത് സംഭവിക്കും നിലവിലെ തരംഗ രൂപം ഇതുപോലെയായിരിക്കാം പക്ഷേ ആംപ്ലിറ്റ്യൂഡ് സ്ക്രീനിൽ നിന്ന് പുറത്തേക്ക് പോയേക്കാം അത് വളരെ വലിയ വൈദ്യുതിയായിരിക്കും തുടർന്ന് നിങ്ങൾക്ക് സ്ഥിരമായ അവസ്ഥ ഉണ്ടാകാൻ തുടങ്ങും പക്ഷേ ആദ്യ ചക്രം കഴിയുമ്പോഴേക്കും ഇതിൻറെ ഫലമുണ്ടാകും അതിനാൽ വലിയ ഉപകരണങ്ങൾ ഡയോഡുകൾ പൊട്ടിത്തെറിച്ചേക്കാം ഡയോഡിൽ ചിലത് പൊട്ടിത്തെറിച്ചാൽ റക്റ്റിഫയർ സർക്യൂട്ടിന് രണ്ടാം അർദ്ധ ചക്രം കാണാൻ കഴിയില്ല അതിനാൽ അത് ഒരിക്കലും ആദ്യ അർദ്ധ ചക്രത്തിനപ്പുറം പോകുന്നില്ല അതിനാൽ ആദ്യത്തെ വൈദ്യുതി കുതിച്ചുചാട്ടം പരിമിതപ്പെടുത്തേണ്ടത് വളരെ പ്രധാനമാണ് തീർച്ചയായും പ്രൊട്ടക്ഷൻ സർക്യൂട്ടുകളെക്കുറിച്ച് ഞാൻ ചർച്ച ചെയ്യുകയും നിലവിലെ സർജുകൾ ഓണാക്കുന്നത് എങ്ങനെ പരിമിതപ്പെടുത്തുമെന്ന് കാണുകയും ചെയ്യും എന്നാൽ എല്ലാം റോസി അല്ലെന്നും നമ്മൾ ചർച്ച ചെയ്ത സർക്യൂട്ട് പൂർണ്ണമായി തികഞ്ഞതല്ലെന്നും ഓർമ്മിക്കുക വൈദ്യുത പ്രവാഹങ്ങൾ വളരെ ഉയർന്നതായിരിക്കും മാത്രമല്ല അത്തരം ഉയർന്ന വൈദ്യുതധാരകൾക്കായി റേറ്റുചെയ്യേണ്ട വാൾ സോക്കറ്റ് ഔട്ട്ലെറ്റിൽ പോലും ഇത് ഒരു വലിയ ചോർച്ചയായിരിക്കും അതിനാൽ ഇവിടെ എവിടെയെങ്കിലും സീരീസ് ഇംപെഡൻസ് സ്ഥാപിക്കാനും നിലവിലെ കുതിച്ചുചാട്ടം പരിമിതപ്പെടുത്താനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു